ഹലോ ഈ ആഴ്ചയിലെ അവസാന പ്രഭാഷണത്തിലേക്ക് ഡെവലപ്പിംഗ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി കോഴ്സിലേക്ക് എല്ലാവരേയും സ്വാഗതം ചെയ്യുന്നു വീക്ക് 5 മൊഡ്യൂൾ 6 പ്രഭാഷണ നമ്പർ 30 ഈ ആഴ്ച മുഴുവൻ നമ്മൾ സാങ്കേതികവിദ്യയിലും ആശയവിനിമയത്തിലും ചെലവഴിച്ചു ആശയവിനിമയം സുഗമമാക്കുന്നതിന് സാങ്കേതികവിദ്യ എങ്ങനെ സംഭാവന നൽകി എന്നതിന്റെ വിവിധ വശങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതേ സമയം മനുഷ്യ വ്യക്തിത്വത്തെ ചുരുക്കാൻ ഉദാഹരണത്തിന് മൊബൈൽ സാങ്കേതികവിദ്യ എങ്ങനെ ഇത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് മാനദണ്ഡങ്ങൾ എങ്ങനെ പാലിക്കണം ഇമെയിൽ എങ്ങനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കണം സമാപന പ്രഭാഷണമെന്ന നിലയിൽ ഈ പ്രഭാഷണത്തിലെ ഇമെയിൽ മര്യാദകളിൽ ഞാൻ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം മുമ്പത്തേതിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരാളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള മര്യാദയുള്ളതും സ്വീകാര്യവുമായ രീതികളായി ഞാൻ നെറ്റിക്വെറ്റിനെക്കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ എന്തിനാണ് ഞാൻ ചില റീസെൻസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാൻ വളരെ സ്വാതന്ത്ര്യമുണ്ടെന്ന് തോന്നുമ്പോൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ആളുകൾ സംവേദനക്ഷമതയില്ലാത്തവരായിത്തീരുന്നു അവർ യന്ത്രങ്ങളെപ്പോലെ പെരുമാറുന്നു തുടർന്ന് മറുവശത്തുള്ള വ്യക്തി ഒരു മനുഷ്യനാണെന്ന് അവർ മറക്കുന്നു കത്തുകൾ ബിസിനസ് കത്തുകൾ എന്നിവ എഴുതുന്നതിനുള്ള ഔപചാരിക പരിശീലനം അക്കാലത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആർക്കും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനോ ഇമെയിലുകൾ അയയ്ക്കുന്നതിനോ ഔപചാരിക പരിശീലനം നൽകുന്നില്ല അതിനാൽ നിങ്ങൾ നെറ്റിക്വെറ്റ് മാനദണ്ഡം അറിയേണ്ടതുണ്ട് നിങ്ങൾ പരിശീലിക്കുകയും ചില അടിസ്ഥാന നിയമങ്ങൾ ഉപയോഗിച്ച് സ്വയം സജ്ജമാക്കുകയും വേണം നമ്മൾ സംസാരിച്ച സോഫ്റ്റ് സ്കിൽസിന്റെ അഞ്ച് പി കൾ നെറ്റ് ഉപയോഗിക്കുമ്പോൾ മിക്ക ആളുകളും പൂർണ്ണമായും അവഗണിക്കുന്നു ആ പശ്ചാത്തലത്തിൽ ചില അടിസ്ഥാന ഇന്റർനെറ്റ് മാനദണ്ഡങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഉദാഹരണത്തിന് റിസീവർ യഥാർത്ഥത്തിൽ പൂർണ്ണമായും ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണെന്ന ആദ്യത്തെ കർദ്ദിനാൾ നിയമത്തിൽ നിന്നാണ് ഞാൻ ആരംഭിച്ചത് അതിനാൽ മറ്റേ വ്യക്തി പൂർണ്ണമായും ജീവനോടെയുണ്ട് ഈ വശം അവിടെ ഇരിക്കുന്ന ഒരു നിഷ്ക്രിയമായ നിർജീവ വസ്തുവാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് തുടർന്ന് അത് തണുത്തതായിരിക്കും നിങ്ങൾ അയയ്ക്കുന്ന ഏത് തരത്തിലുള്ള ആശയവിനിമയത്തിനും പ്രതികരണമുണ്ടാകില്ല അതിനാൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക നിങ്ങൾ ഒരു റോബോട്ടല്ല ഒരു മനുഷ്യനാണെന്ന് കാണിച്ച് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നെറ്റിക്വെറ്റ് ഔപചാരിക ആശയവിനിമയത്തിൽ പോലും ഉചിതമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇമോട്ടിക്കോണുകൾ ഉപയോഗിക്കാം അത് ഇപ്പോൾ അനുവദനീയമാണ് എന്നാൽ സുരക്ഷിതമായിരിക്കാൻ എല്ലായ്പ്പോഴും ഉചിതമായ ഭാഷ ഉപയോഗിക്കുക ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ നിങ്ങൾക്ക് മര്യാദയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയും നന്ദി ദയവായി തുടർന്ന് വിശദീകരിക്കുക നിങ്ങളുടെ ആശയവിനിമയത്തിലും ഉചിതമായ ഭാഷയിലും കഴിയുന്നത്ര മര്യാദയുള്ള രൂപങ്ങൾ ഉപയോഗിക്കുക കോപം നിരാശ തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക തുടർന്ന് നിങ്ങളെ എല്ലായ്പ്പോഴും സുരക്ഷിതമായി നിലനിർത്തുന്ന ശരിയായ ഭാഷ ഉപയോഗിക്കുക തുടങ്ങിയ ലളിതമായ കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്ന എന്തും സ്ഥിരമായി കാണിക്കാൻ കഴിയുന്നതിനാൽ ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുന്നതിലും ശ്രദ്ധിക്കുക അതിനാൽ നിങ്ങൾ എന്താണ് എഴുതുന്നതെന്ന് ചിന്തിക്കുക അതിനാൽ അത് സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയും അത് പിന്നീടുള്ള ഘട്ടത്തിൽ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാം കൂടാതെ ഇമെയിലുകൾ അയച്ചുകഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നത് റിസീവറാണെന്നും നിങ്ങൾ ഓർമ്മിക്കണം നിങ്ങൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു റിസീവറിന് നിങ്ങളെ നാണം കെടുത്താൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ റിസീവറിന് ചെയ്യാൻ കഴിയും റിസീവർ ഉടൻ തന്നെ ഇല്ലാതാക്കണമെന്ന് നിങ്ങൾ കരുതിയ മെയിൽ ഉപയോഗിച്ച് നിങ്ങളെ അപമാനിക്കാൻ കഴിയും എന്നാൽ റിസീവർ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു മൊത്തത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചു നിങ്ങൾ എല്ലായ്പ്പോഴും ശരിയായിരിക്കണം പ്രത്യേകിച്ചും നിങ്ങൾ ഇമെയിലുകൾ അയയ്ക്കുമ്പോൾ ധാർമ്മികമായി ശരിയായിരിക്കണം അതിനാൽ ധാർമ്മികമായി ശരിയായിരിക്കുന്നതിലൂടെ എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങളുടെ അവകാശമാണെന്ന് പറയാം എന്താണ് ശരി ഉചിതമായത് എന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം തുടർന്ന് നിങ്ങൾ അത് ചെയ്യണം അതിനാൽ ധാർമ്മികമായി എന്താണ് ശരി അല്ലെങ്കിൽ ധാർമ്മികമായി എന്താണ് മോശം എന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അറിയാം മോശം ആശയവിനിമയം ഉപയോഗിക്കരുത് പ്രത്യേകിച്ചും അധാർമികമായവ അധാർമികമായവ ഇന്റർനെറ്റിൽ ലോഡ് ചെയ്യരുത് ഇത് നിങ്ങളെ അറിയാതെ പിടികൂടുകയും പിന്നീടുള്ള ഘട്ടത്തിൽ നിങ്ങളെ വളരെയധികം നാണം കെടുത്തുകയും ചെയ്യും പൂർണ്ണമായും അനാവശ്യമായ സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പങ്കാളികൾ എന്ന നിലയിലും ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ സാങ്കേതികവിദ്യയെയും ആശയവിനിമയത്തെയും കുറിച്ചുള്ള സമാപന പ്രഭാഷണത്തിൽ ഇമെയിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രത്യേകമായി ആവശ്യമുള്ള മാനദണ്ഡങ്ങളായ ഇമെയിൽ മര്യാദകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇപ്പോൾ നിങ്ങൾ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു ഇമെയിൽ അയയ്ക്കുമ്പോൾ അർത്ഥവത്തായിരിക്കുക എന്നതാണ് അവസാനത്തേതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന ഉദാഹരണങ്ങളിൽ ചിലത് എനിക്കോ നിങ്ങൾക്കോ ഒരു അർത്ഥവുമില്ലാത്തതും പിന്നീട് ആളുകൾ അയച്ചതും അവ യഥാർത്ഥത്തിൽ അർത്ഥവത്താണെന്ന് കരുതിയതുമായ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടു അതിനാൽ അർത്ഥപൂർണ്ണമാക്കാൻ ശ്രമിക്കുക അതായത് അർത്ഥവത്തായ ശരിയായ സന്ദേശം നൽകുക ചിന്താശൂന്യമായവ അയയ്ക്കുന്നത് ബുദ്ധിമുട്ടാക്കും അതിനാൽ അത് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇമെയിലുകളുടെ കാര്യം വരുമ്പോൾ അർത്ഥശൂന്യമോ അസംബന്ധമോ ആയ ഇമെയിലുകൾ അയയ്ക്കുന്നത് വളരെ എളുപ്പമാണ് കാരണം ആളുകൾ അവരുടെ മനസ്സിൽ വരുന്നതെന്തും പ്രകടിപ്പിക്കുന്നത് അവരുടെ ചിന്തകളെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാതെ ടൈപ്പ് ചെയ്യുന്നു ഒരു നിശ്ചിത കാലയളവിൽ കുമിഞ്ഞുകൂടിയ ചില മോശം എഴുത്ത് ശീലങ്ങൾ കുറയ്ക്കുക എന്നത് ബുദ്ധിമുട്ടാണ് വീണ്ടും മറക്കാൻ വിസമ്മതിക്കുന്ന പഴയ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിനും തുടർന്ന് ശരിയായ ശീലങ്ങൾ സ്വീകരിക്കാൻ പ്രായോഗികമായി മാത്രം സമയമെടുക്കുന്ന ശരിയായ ശീലങ്ങൾ സ്വീകരിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അവയെ ഉൾക്കൊള്ളാൻ സഹായിക്കും അതിനാൽ അടുത്ത കുറച്ച് സ്ലൈഡുകളിൽ ഞാൻ വ്യക്തമാക്കാൻ പോകുന്ന ഇമെയിൽ എഴുത്തിന്റെ കാര്യത്തിൽ നല്ല ശീലങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക മൊത്തത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചു നിങ്ങൾ എല്ലായ്പ്പോഴും ശരിയായിരിക്കണം പ്രത്യേകിച്ചും നിങ്ങൾ ഇമെയിലുകൾ അയയ്ക്കുമ്പോൾ ധാർമ്മികമായി ശരിയായിരിക്കണം അതിനാൽ ധാർമ്മികമായി ശരിയായിരിക്കുന്നതിലൂടെ എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങളുടെ അവകാശമാണെന്ന് പറയാം എന്താണ് ശരി ഉചിതമായത് എന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം തുടർന്ന് നിങ്ങൾ അത് ചെയ്യണം അതിനാൽ ധാർമ്മികമായി എന്താണ് ശരി അല്ലെങ്കിൽ ധാർമ്മികമായി എന്താണ് മോശം എന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അറിയാം മോശം ആശയവിനിമയം ഉപയോഗിക്കരുത് പ്രത്യേകിച്ചും അധാർമികമായവ അധാർമികമായവ ഇന്റർനെറ്റിൽ ലോഡ് ചെയ്യരുത് ഇത് നിങ്ങളെ അറിയാതെ പിടികൂടുകയും പിന്നീടുള്ള ഘട്ടത്തിൽ നിങ്ങളെ വളരെയധികം നാണം കെടുത്തുകയും ചെയ്യും പൂർണ്ണമായും അനാവശ്യമായ സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പങ്കാളികൾ എന്ന നിലയിലും ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ സാങ്കേതികവിദ്യയെയും ആശയവിനിമയത്തെയും കുറിച്ചുള്ള സമാപന പ്രഭാഷണത്തിൽ ഇമെയിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രത്യേകമായി ആവശ്യമുള്ള മാനദണ്ഡങ്ങളായ ഇമെയിൽ മര്യാദകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇപ്പോൾ നിങ്ങൾ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു ഇമെയിൽ അയയ്ക്കുമ്പോൾ അർത്ഥവത്തായിരിക്കുക എന്നതാണ് അവസാനത്തേതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന ഉദാഹരണങ്ങളിൽ ചിലത് എനിക്കോ നിങ്ങൾക്കോ ഒരു അർത്ഥവുമില്ലാത്തതും പിന്നീട് ആളുകൾ അയച്ചതും അവ യഥാർത്ഥത്തിൽ അർത്ഥവത്താണെന്ന് കരുതിയതുമായ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടു അതിനാൽ അർത്ഥപൂർണ്ണമാക്കാൻ ശ്രമിക്കുക അതായത് അർത്ഥവത്തായ ശരിയായ സന്ദേശം നൽകുക ചിന്താശൂന്യമായവ അയയ്ക്കുന്നത് ബുദ്ധിമുട്ടാക്കും അതിനാൽ അത് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇമെയിലുകളുടെ കാര്യം വരുമ്പോൾ അർത്ഥശൂന്യമോ അസംബന്ധമോ ആയ ഇമെയിലുകൾ അയയ്ക്കുന്നത് വളരെ എളുപ്പമാണ് കാരണം ആളുകൾ അവരുടെ മനസ്സിൽ വരുന്നതെന്തും പ്രകടിപ്പിക്കുന്നത് അവരുടെ ചിന്തകളെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാതെ ടൈപ്പ് ചെയ്യുന്നു ഒരു നിശ്ചിത കാലയളവിൽ കുമിഞ്ഞുകൂടിയ ചില മോശം എഴുത്ത് ശീലങ്ങൾ കുറയ്ക്കുക എന്നത് ബുദ്ധിമുട്ടാണ് വീണ്ടും മറക്കാൻ വിസമ്മതിക്കുന്ന പഴയ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിനും തുടർന്ന് ശരിയായ ശീലങ്ങൾ സ്വീകരിക്കാൻ പ്രായോഗികമായി മാത്രം സമയമെടുക്കുന്ന ശരിയായ ശീലങ്ങൾ സ്വീകരിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അവയെ ഉൾക്കൊള്ളാൻ സഹായിക്കും അതിനാൽ അടുത്ത കുറച്ച് സ്ലൈഡുകളിൽ ഞാൻ വ്യക്തമാക്കാൻ പോകുന്ന ഇമെയിൽ എഴുത്തിന്റെ കാര്യത്തിൽ നല്ല ശീലങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക മൊത്തത്തിൽ നിങ്ങൾ അയയ്ക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും അർത്ഥം നേടുന്നതിന് നിങ്ങളുടെ ഇമെയിൽ മുൻകൂട്ടി ആസൂത്രണം നിങ്ങളുടെ ഇമെയിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക നിങ്ങൾ എന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു മൂല്യവത്തായ വ്യായാമം പോലും നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന പോയിന്റുകൾ രേഖപ്പെടുത്തുക പോയിന്റുകൾ വ്യക്തമായി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഇമെയിൽ പരിശോധിക്കുക നിങ്ങൾ ഏത് പോയിന്റ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു ഏത് പോയിന്റാണ് നിങ്ങൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അതിനാൽ തുടക്കവും മധ്യവും അവസാനവും ആസൂത്രണം ചെയ്യുക ചിലപ്പോൾ ലളിതമായ സാധാരണ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒരു പ്രധാന കാര്യം അവസാനം പറയാം ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം വരേണ്ടതാണെന്ന് നിങ്ങൾ കരുതുന്നു തുടർന്ന് നിങ്ങൾ വാദിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തെളിയിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ ക്രമവും തീരുമാനിക്കുന്നു ഒരു താത്ക്കാലിക ഡ്രാഫ്റ്റ് എഴുതി നിങ്ങൾ സ്വയം തയ്യാറാക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ശരിക്കും സഹായിക്കും ഒരു വേഡ് ഡോക്യുമെന്റിൽ താത്ക്കാലിക ഡ്രാഫ്റ്റ് എഴുതുക തുടർന്ന് അക്ഷരവിന്യാസവും അതെല്ലാം പരിശോധിക്കുന്ന ഖണ്ഡിക വിഭാഗങ്ങൾ ഉപയോഗിച്ച് വായിക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കുക നിങ്ങൾ സംക്ഷിപ്തമാണെന്നും നിങ്ങൾക്ക് വ്യക്തമാണെന്നും ഉറപ്പാക്കുകയും തുടർന്ന് നിങ്ങൾ യോജിച്ച പൊരുത്തക്കേട് ആണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക അതായത് ക്രമം ശരിയായി തീരുമാനിക്കപ്പെടുന്നില്ല ക്രമം ശരിയായി പരിപാലിക്കുന്നില്ല എന്നത് വായനക്കാരനെ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാക്കും അത് നിങ്ങളുടെ സ്വീകർത്താവിനെ ആശയക്കുഴപ്പത്തിലാക്കും അതിനാൽ സന്ദർഭത്തിൽ അർത്ഥമില്ലാത്ത കാലഹരണപ്പെട്ട വാക്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന മറ്റ് ലളിതമായ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ ചില പഴയ ഭാഷാപരമായ പദപ്രയോഗങ്ങൾ ഉദാഹരണത്തിന് അർത്ഥമില്ലാത്ത ഭാഷാപരമായ പദപ്രയോഗങ്ങൾ നിങ്ങളുടെ സ്വന്തം സന്ദർഭത്തിൽ ഒരു പ്രാദേശിക പശ്ചാത്തലത്തിൽ ചില ഭാഷാപരമായ പദപ്രയോഗങ്ങൾ എവിടെയോ ചില സംസ്കാരത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് തുടർന്ന് അവ നിങ്ങൾക്ക് ഒരു പ്രസക്തിയും നൽകുന്നില്ല അതുപോലെ രൂപകങ്ങളും ഉപമകളും താരതമ്യങ്ങൾ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ അവ വായനക്കാരനെ ആശയക്കുഴപ്പത്തിലാക്കുകയും തെറ്റായ ആശയവിനിമയത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇമെയിൽ ആശയവിനിമയത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റായ ആശയവിനിമയമാണ് രൂപകങ്ങളുടെ പ്രത്യക്ഷമായ ഉപയോഗത്തിലൂടെ പദപ്രയോഗങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്നതിലൂടെ അത് ഉണ്ടാക്കുന്നത് മൂല്യവത്തല്ല ഇത് വായനക്കാരന് മനോഹരമായി തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പവും തെറ്റായ ആശയവിനിമയവും സൃഷ്ടിക്കുമെന്ന് കരുതുന്ന ഉപമകൾ ആവശ്യമില്ല ഹ്രസ്വമായ വാക്യ നിർമ്മിതികളുള്ള ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുക വളരെ പൂക്കളുള്ള അലങ്കാര പോളിസൈലബിക് വാക്കുകൾക്ക് പോകരുത് അത് നിരവധി സിലബിക് വാക്കുകളും നീളമുള്ള വാക്കുകളും നീളമുള്ളതും സങ്കീർണ്ണവുമായ വാക്യങ്ങൾ പോലും നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ മെയിൽ വളരെ വ്യക്തമാവുകയും അത് വളരെ എളുപ്പത്തിൽ യന്ത്രത്തിന്റെ തടസ്സം മറികടന്ന് വളരെ മാനുഷികമായ രീതിയിൽ മറ്റൊരാളിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട അടുത്ത കാര്യം സ്വീകർത്താവിന്റെ ഒരു മണിക്കൂർ ലാഭിക്കാൻ ഒരു മിനിറ്റ് അധികമായി ചെലവഴിക്കുക എന്നതാണ് വളരെ വേഗത്തിൽ കുറച്ച് പരിശോധന നടത്താൻ നിങ്ങൾ ഒരു മിനിറ്റ് കൂടി ചെലവഴിക്കുന്നു എന്നാൽ ഇത് സ്വീകർത്താവിന് ഒരു മണിക്കൂർ ലാഭിക്കാൻ കഴിയും കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ വിഷമിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസിലാക്കാൻ മറ്റേയാൾ ഏകദേശം ഒരു മണിക്കൂർ എടുത്തു നിങ്ങൾക്ക് ആ അധിക മിനിറ്റ് എങ്ങനെ ചെലവഴിക്കാമെന്ന് നോക്കാം അതുവഴി നിങ്ങൾക്ക് സ്വീകർത്താവിന്റെ ഒരു മണിക്കൂർ ലാഭിക്കാൻ കഴിയും സ്പെല്ലിംഗ് വ്യാകരണം പരിശോധിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റുചെയ്യുന്നതിന് നിങ്ങൾ അധിക സമയം ചെലവഴിക്കണം ദൈർഘ്യമേറിയ വസ്തുക്കളെ വായിക്കാൻ കഴിയുന്ന ഖണ്ഡികകളായി വിഭജിക്കുന്ന വിരാമചിഹ്നങ്ങൾ ഉപയോഗിച്ച് സ്വീകർത്താവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു വിവരണാത്മക വിഷയ ലൈൻ ടൈപ്പ് ചെയ്യാൻ ഓർമ്മിക്കുകയും ഒടുവിൽ ആവശ്യപ്പെടാത്തതും അപ്രസക്തവുമായ മെയിൽ അയയ്ക്കാതിരിക്കുകയും ചെയ്യുക ഇപ്പോൾ ഇനിപ്പറയുന്ന ഉപശീർഷകങ്ങളിൽ ഈ വശങ്ങൾ ഓരോന്നായി ഹ്രസ്വമായി നോക്കാം ആദ്യം അത് ഹ്രസ്വമായി സൂക്ഷിക്കുക നിങ്ങളുടെ ഇമെയിലുകൾ ഉള്ളടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെ ഹ്രസ്വമായി നിലനിർത്താൻ കഴിയും അതായത് ഹ്രസ്വമായി അർത്ഥമാക്കുന്നത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു അധിക വാക്യങ്ങൾ അറ്റാച്ചുചെയ്തിട്ടില്ല ദൈർഘ്യത്തിൽ ഹ്രസ്വമായിരിക്കണം ദൈർഘ്യമേറിയ ഇമെയിലുകൾ എഴുതരുത് ആളുകൾക്ക് സാധാരണയായി ദൈർഘ്യമേറിയ ഇമെയിലുകൾ വായിക്കാൻ സമയമില്ല ദൈർഘ്യമേറിയ മെയിലുകൾ സ്ഥിരമായി ഇല്ലാതാക്കുന്ന ആളുകളെ എനിക്കറിയാം അവർ വായിക്കുന്നില്ല ചിലപ്പോൾ അവർ വിഷയം നോക്കുമ്പോൾ ഒന്നോ രണ്ടോ വരികൾ വേഗത്തിൽ ബ്രൌസ് ചെയ്യുന്നു അവർ തള്ളിക്കളയുന്നു ഒരു ഇമെയിൽ അയയ്ക്കാനുള്ള ശരിയായ മാർഗമാണിതെന്ന് അവർ കരുതുന്നില്ല നിങ്ങൾ ദൈർഘ്യമേറിയ മെയിലുകൾ അയയ്ക്കുമ്പോൾ അവർ അത് തള്ളിക്കളയുന്നില്ല നിങ്ങൾ അവിടെ എഴുതിയ മെയിൽ പത്ത് പേജുകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അതിനാൽ ഇത് ഹ്രസ്വമായി സൂക്ഷിക്കുക നിങ്ങൾ ഒരു ഉപന്യാസം എഴുതുമെന്ന് കരുതരുത് സ്വീകർത്താവിനെ ആകർഷിക്കാൻ നിങ്ങൾ നിരവധി പേജുകൾ എഴുതും ഒരു ഹ്രസ്വ ഖണ്ഡികയിൽ നിങ്ങൾക്ക് ഒരു ആശയം ഫലപ്രദമായി അറിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നീണ്ട ഉപന്യാസത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്നതാണ് പെരുമാറ്റച്ചട്ടം നിങ്ങൾ ഒന്നിച്ചുള്ള വാക്യങ്ങൾ എഴുതുന്നത് തുടരുക തുടർന്ന് നിങ്ങൾ ഒരു ലളിതമായ ആശയം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിരവധി ഖണ്ഡികകളിൽ അറിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാൽ ഒരു ആശയം നിങ്ങൾ ഒരു ഖണ്ഡികയിൽ അറിയിക്കുമെന്നും ആ ആശയം ആ ഖണ്ഡികയിൽ ഉറച്ചുനിൽക്കുമെന്നും നിങ്ങൾ സ്വയം മറ്റൊരു നിയമം പറഞ്ഞാൽ നിങ്ങൾ പത്ത് പേജുകളിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അറിയിക്കുമായിരുന്നു അതിനാൽ പേജിന്റെ നാലിലൊന്ന് ഭാഗത്ത് ഒരു ഖണ്ഡികയിൽ ഒരേ കാര്യം പറയാൻ കഴിയുമ്പോൾ പത്ത് പേജുകൾ എഴുതുന്നതിൽ ഒരു യോഗ്യതയുമില്ല വാസ്തവത്തിൽ ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കും നിങ്ങൾക്ക് കാര്യം മൂന്ന് നാല് ലളിതമായ വാക്യങ്ങളിൽ അറിയിക്കാൻ കഴിയുമെങ്കിൽ ആളുകൾ നിങ്ങളോട് വളരെ നന്ദിയുള്ളവരായിരിക്കും മൂന്ന് നാല് പേജുകൾ എഴുതുന്നതിനേക്കാൾ നിങ്ങളുടെ ഇമെയിലുകൾ എല്ലായ്പ്പോഴും ചവറ്റുകുട്ടയിലേക്ക് ഉടനടി അയയ്ക്കുന്നതിനോ ഫിൽട്ടർ ഇടുന്നതിനോ പകരം വായിക്കും വിഷയത്തിന്റെ സ്വഭാവം കാരണം ഒരു ഇമെയിൽ ഗണ്യമായി അന്യായമായി ദൈർഘ്യമേറിയതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു റിപ്പോർട്ട് നൽകുന്നു ചിലപ്പോൾ നിങ്ങൾ വളരെ ദൈർഘ്യമേറിയ ഒരു വാദം അവതരിപ്പിക്കുന്നു ആ സാഹചര്യത്തിൽ നിങ്ങൾ എഴുതുന്ന ഒരു നീണ്ട ഇമെയിൽ ആണെന്ന ധാരണ നൽകരുത് ഇത് ഒരു നീണ്ട ഉപന്യാസമാണ് ഉപശീർഷകങ്ങൾ അവയെ ഖണ്ഡികകളായി വിഭജിക്കുകയും ഓരോ ഖണ്ഡികയ്ക്കും ഒരു ഉപശീർഷകം ഉണ്ടായിരിക്കട്ടെ ഇമെയിലിൽ ഖണ്ഡികകൾക്കിടയിൽ മതിയായ ഇടങ്ങൾ ഉപയോഗിക്കുക ഒരു ഖണ്ഡികയും ഇല്ലാതെ എഴുതാനുള്ള പ്രവണതയുണ്ട് ആളുകൾക്ക് ഒരു ഖണ്ഡികയും മറ്റൊന്ന് തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല അതിനാൽ വായിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാക്കാൻ മതിയായ ഇടം നൽകുക അതിനാൽ കണ്ണുകൾ സന്തുഷ്ടരാകും ഖണ്ഡികകൾക്കിടയിൽ ശൂന്യമായ ഇടങ്ങളുള്ള ആ ഇമെയിലുകൾ നോക്കുന്നതിൽ അവർക്ക് വളരെ സന്തോഷം തോന്നും അതിനാൽ പ്രധാന ഉള്ളടക്കം നോക്കുന്നതിനും തിരിച്ചറിയുന്നതിനും കണ്ണുകൾക്ക് ബുദ്ധിമുട്ടില്ല അടുത്ത പ്രധാന മാനദണ്ഡം വിഷയരേഖകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന മുകളിൽ ഒരു വിഷയ വരിയുണ്ട് എന്താണ് വിഷയം എന്താണ് പ്രധാന ആശയം ഇപ്പോൾ പലരും വിഷയരേഖകളിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല നിങ്ങൾ അയയ്ക്കുന്ന വിഷയരേഖകൾ എന്നോട് പറയുകയോ നിങ്ങൾ അയച്ച 50 ഇമെയിലുകൾ എനിക്ക് നൽകുകയോ ചെയ്താൽ ഞാൻ ഇത് നിങ്ങളോട് പറയും വിഷയരേഖകൾ വിശകലനം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും കാരണം വിഷയരേഖകൾ നിങ്ങൾ ഏതുതരം വ്യക്തിയാണെന്ന് എന്നതിനെക്കുറിച്ച് എന്നോട് പറയുന്നു നിങ്ങൾക്ക് ആ ശൈലി ഉണ്ടോ ഇല്ലയോ എന്ന് വിഷയ വരിയിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്ന ആളുകളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഇപ്പോൾ സബ്ജക്റ്റ് ലൈനുകളിൽ ഒരു ഇമെയിലിന് ഉണ്ടാകാൻ കഴിയുന്ന ഏറ്റവും മോശം സബ്ജക്റ്റ് ലൈൻ ഒരു വിഷയമല്ല പലപ്പോഴും നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരുന്നതായി നിങ്ങൾ കാണും മുകളിൽ അതിൽ ഒരു വിഷയവും എഴുതപ്പെടുന്നില്ല കാരണം ഇമെയിൽ ഒന്നുകിൽ സബ്ജക്റ്റ് ലൈൻ ഇല്ലാതെ തിടുക്കത്തിൽ അയയ്ക്കുന്നു അതിനാൽ ആ വ്യക്തി തിടുക്കത്തിലാണ് അതിനാൽ അദ്ദേഹം എന്തെങ്കിലും എഴുതി തുടർന്ന് അയച്ചു അല്ലെങ്കിൽ വിഷയം എന്താണെന്ന് ചിന്തിക്കുന്നില്ല പക്ഷേ അത് അയച്ച വ്യക്തിക്ക് വിഷയം എന്താണെന്ന് ചിന്തിക്കാൻ സമയമില്ല വായന ആരംഭിക്കുന്നതിനും വിഷയം മനസിലാക്കുന്നതിനും സ്വീകർത്താവ് ചെലവഴിക്കുന്ന വിലയേറിയ സമയത്തെക്കുറിച്ച് അയച്ചയാൾ അശ്രദ്ധനാണെന്നും ഇത് അപ്രസക്തമായ സന്ദേശമാണെന്നും അത് ഇല്ലാതാക്കേണ്ടതുണ്ടെന്നും പലപ്പോഴും മനസ്സിലാക്കുന്നുവെന്നും ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ അത് തുറക്കാനും അത് ശരിയാണോ എന്ന് പരിശോധിക്കാനും റിസീവർ വളരെയധികം സമയം ചെലവഴിക്കുന്നു അതിനുശേഷം അത് ഇല്ലാതാക്കണമെന്ന് വ്യക്തി മനസ്സിലാക്കുന്നു അതിനാൽ അത് വീണ്ടും ആവശ്യമില്ല വിഷയ വരികൾ ഉള്ളിലുള്ളതെന്തും വിഷയ വരിയിൽ പുറത്ത് പ്രകടിപ്പിക്കേണ്ട ഉള്ളടക്കത്തെ വ്യക്തമായി പ്രകടിപ്പിക്കണം മെയിൽ തുറക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നതിന് സ്വീകർത്താവിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നിങ്ങൾ സ്വീകർത്താവിനെ ബഹുമാനിക്കുന്ന മറ്റൊരു തത്വവുമുണ്ട് വിഷയ വരിയിൽ തന്നെ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്ന് കരുതുക അത് തനിക്ക് അല്ലെങ്കിൽ അവൾക്ക് പ്രസക്തമാണോ എന്ന് ആ വ്യക്തിക്ക് അറിയാം തുടർന്ന് ആ വ്യക്തിക്ക് അത് ഉടൻ ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ ഗോവയിലേക്കുള്ള സൌജന്യ അവധിക്കാല യാത്ര പോലുള്ള പ്രലോഭനകരമായ വിഷയ വരികൾ നിങ്ങൾ ഉപയോഗിക്കരുത് അതിനാൽ ആ വ്യക്തി തുറക്കുന്നു തുടർന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതായി പരസ്യം ചെയ്യുന്നു പക്ഷേ അകത്ത് ഇത് ഒന്നും അർത്ഥമാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തുറന്നുപറയുന്നു ബിൽ ഗേറ്റ്സ് ആകുകയും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയും വേഗത്തിൽ സമ്പന്നനാകുന്നതുമായി യാതൊരു ബന്ധവുമില്ലാതെ എന്നെന്നേക്കുമായി ചെറുപ്പമായി തുടരുകയും ചെയ്യുന്നു ഇവ പ്രലോഭനീയമായ വിഷയ വരികളാണ് എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാൻ തുടങ്ങിയാൽ അവർ വീണ്ടും മെയിൽ തുറക്കുക പോലും ചെയ്യില്ല അതേ സമയം നിങ്ങൾ വിഷയത്തെ മൂലധനമാക്കിയോ അല്ലെങ്കിൽ തെറ്റായ അടിയന്തിരാവസ്ഥ സൃഷ്ടിക്കുകയോ ചെയ്യരുത് എന്ന ധാരണ അവർ രൂപപ്പെടുത്തും ഞാൻ ചെയ്തതെന്തും ആവർത്തിക്കുകയും ഉടൻ തന്നെ അയയ്ക്കുകയും ചെയ്യുക അതിനാൽ ഉടനടി ശ്രദ്ധിക്കുക ഉടനടി ശ്രദ്ധിക്കുക എന്ന വാക്കിന്റെ ഉപയോഗം തുടർന്ന് വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് പോലും നിങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത അടിയന്തിരാവസ്ഥ സൃഷ്ടിക്കുകയാണെന്ന് മറ്റേ വ്യക്തിക്ക് ഒരു ധാരണ നൽകും തൻ്റെ ജീവനക്കാരുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും പിടിച്ചുപറ്റണമെന്ന് കരുതിയ ഒരു മാനേജരുടെ കഥ ഞാൻ കേട്ടു അതിനാൽ അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡേർഡ് സബ്ജക്ട് ലൈൻ ഉണ്ടായിരുന്നു അത് എല്ലായ്പ്പോഴും ക്യാപ്പുകളിലും എഴുതപ്പെടുന്നു അദ്ദേഹം അടിയന്തിരമായി ഒരു കാര്യം എഴുതി അതിനാൽ അദ്ദേഹത്തിൽ നിന്ന് പോകുന്ന ഏത് മെയിലിനും ഈ അടിയന്തിര വിഷയവും ഉണ്ടായിരിക്കും രണ്ട് വാക്കുകൾ ഉടനടി പ്രതികരിക്കുന്നു അടിയന്തിരമായി ഉടൻ പ്രതികരിക്കുക ഇപ്പോൾ കാലക്രമേണ ജീവനക്കാർ ഇത് ഗൌരവമുള്ള ഒന്നാണെന്ന് കരുതി ഒരു മാസത്തിനുശേഷം അവർ പ്രതികരിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്നും അവർ പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കില്ലെന്നും അവർ മനസ്സിലാക്കുന്നു അതിനാൽ കാലക്രമേണ എന്താണ് സംഭവിച്ചതെന്ന് ജീവനക്കാർ ഒരിക്കലും പ്രതികരിച്ചില്ല അവർ ഇമെയിലിനോട് പ്രതികരിക്കുന്നത് നിർത്തി ഇപ്പോൾ നിങ്ങൾ ഒരേ വിഷയം ആവർത്തിക്കുമ്പോൾ അതിന്റെ അടിയന്തിരതയും ഊന്നലും നഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആവർത്തിക്കുന്ന അതേ വിഷയത്തിന് അതിന്റെ ഊന്നൽ നഷ്ടപ്പെടുകയും തുടർന്ന് അടിയന്തിര കാര്യങ്ങളുടെ തെറ്റായ ബോധം നഷ്ടപ്പെടുകയും തുടർന്ന് അമിത ഊന്നലിനായി വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും അതിനാൽ അത് അശ്രദ്ധമായി അനന്തമായി ആവർത്തിക്കുകയും അത് മൊത്തത്തിലുള്ള പ്രാധാന്യം സൃഷ്ടിക്കുമെന്നും അത് സംഭവിക്കുന്നില്ലെന്നും ചിന്തിക്കുകയും ചെയ്താൽ എല്ലാം പൂർണ്ണമായും ലക്ഷ്യം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഇമെയിൽ എന്തിനെക്കുറിച്ചാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഇമെയിലിന്റെ പ്രധാന ആശയം സൂചിപ്പിക്കുന്ന ഒരു ഹ്രസ്വ വിവരണാത്മക വാക്യം ഉപയോഗിച്ച് വിഷയ വരികളിൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾ ഒരു വാക്യത്തിൽ എന്നോട് പറയുന്ന ഒരു വാക്യത്തിൽ എന്നോട് പറയാമോ തുടർന്ന് ഞാൻ നിങ്ങളോട് വാക്യത്തിൽ പറയുന്നു നിങ്ങൾ അതെ എന്ന് പറയുന്ന രണ്ട് മൂന്ന് പ്രധാന വാക്കുകൾ തിരിച്ചറിയാൻ കഴിയുമോ ഇവയാണ് മൂന്ന് പ്രധാന വാക്കുകൾ ആ വാക്കുകൾ വിഷയ വരിയിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഇമെയിലിനെക്കുറിച്ച് രണ്ടോ മൂന്നോ വാക്കുകളിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പറയാൻ കഴിയുന്ന ഒന്നാണിത് ചിലപ്പോൾ ഒരു വാക്ക് നാലോ അഞ്ചോ വാക്കുകളിൽ കൂടരുത് നിങ്ങൾ വിശദാംശങ്ങൾ ചേർക്കാൻ പോകുകയാണെങ്കിൽ അത് അതിനപ്പുറത്തേക്ക് പോകാം എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ചില ഉദാഹരണങ്ങൾ നാല് അഞ്ച് വാക്കുകൾക്കപ്പുറത്തേക്ക് പോകുന്നു പക്ഷേ വ്യക്തതയ്ക്കായി അവ ഉദ്ദേശ്യത്തോടെയും ചെയ്തതിനാൽ നല്ലതാണ് ഉദാഹരണത്തിന് ഇത് ഒരു മീറ്റിംഗാണെങ്കിൽ മീറ്റിംഗും ഡയറക്ടർമാരുടെ മീറ്റിംഗും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ വിഷയ വരിയിൽ തന്നെ തീയതിയും സ്ഥലവും വ്യക്തമാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് സ്വീകർത്താക്കൾക്ക് സഹായകമാകും അതിനാൽ അത് മുഴുവൻ ഇമെയിലിനെക്കുറിച്ചാണ് എന്നാൽ വിഷയ വരിയിൽ തന്നെ ഇത് 2016 ജൂൺ ഇരുപത്തിയൊന്നാം തീയതിയാണെന്നും തുടർന്ന് പത്തുമണി കോൺഫറൻസ് റൂം സമയമാണെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അതിനാൽ അഞ്ച് കോൺഫറൻസ് റൂമുകളുണ്ടെന്ന് കരുതുക അത് സിആർ മൂന്ന് കോൺഫറൻസ് റൂം നമ്പർ മൂന്ന് ആണെന്ന് നിങ്ങൾ പറയുന്നു ഇപ്പോൾ ആളുകൾ ഉടൻ തന്നെ അതിലൂടെ കടന്നുപോകേണ്ടതില്ല അവർക്ക് ഒരു നോട്ടം നടത്താനും കുറച്ച് സമയത്തിന് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് മനസിലാക്കാനും കഴിയും അവർക്ക് സമയം ലഭിക്കുമ്പോഴെല്ലാം ഉള്ളടക്കങ്ങൾ വായിക്കാനും മീറ്റിംഗ് എന്തിനാണ് നടത്തുന്നതെന്ന് കണ്ടെത്താനും കഴിയും അതുപോലെ നിങ്ങൾ ഒരു പ്രഭാഷണത്തിനായി ആളുകളെ ക്ഷണിക്കുകയാണെങ്കിൽ ആളുകളെ ആകർഷിക്കുന്നതിനും ജനങ്ങളെ അറിയിക്കുന്നതിനും ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നതിനുമായി നിങ്ങൾക്ക് പ്രഭാഷകന്റെ പേരും വിഷയവും വിഷയ വരിയിൽ പരാമർശിക്കാം അതിനാൽ കെവിൻ വാർവിക് എൽഎച്ച് 16 സൈബർനെറ്റിക്സിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് വിഷയം ഇപ്പോൾ പ്രത്യേകിച്ച് ഐ ടി കാൺപൂർ പോലുള്ള സ്ഥാപനങ്ങളിൽ ലെക്ചർ ഹാൾ പതിനാറ് എല്ലാവർക്കും പരിചിതമാണ് എന്നാൽ ഈ ചുരുക്കെഴുത്ത് അറിയാത്ത ഒരു സ്ഥലത്ത് ഇത് ഐ ടി കാൺപൂരിന് പുറത്തേക്ക് അയച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അതിനാൽ നിങ്ങൾ പൂർണ്ണ രൂപത്തിൽ എഴുതണം നിങ്ങൾ പ്രഭാഷണ ഹാൾ എഴുതണം തുടർന്ന് തീയതിയും സമയവും എഴുതുക അതിനാൽ ഇത് വളരെ വ്യക്തമാക്കുന്നു പ്രഭാഷണത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് ഇമെയിൽ തുറക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ സ്വീകർത്താവിന് ഒരു ചോയ്സ് സ്വാതന്ത്ര്യം നൽകുന്നു സാഹിത്യത്തിലോ ധനകാര്യത്തിലോ സാമ്പത്തികശാസ്ത്രത്തിലോ ഉള്ള ആരെങ്കിലും ഇത് പൂർണ്ണമായും കമ്പ്യൂട്ടർ സയൻസിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണെന്ന് തീരുമാനിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഇതിൽ താൽപ്പര്യമില്ല ആ വ്യക്തി മെയിൽ തുറന്ന് വായിക്കേണ്ടതില്ല അത് വളരെയധികം സമയം ലാഭിക്കുന്നു അതിനാൽ മൊത്തത്തിൽ ഇത് മെയിൽ തുറക്കാതെ തന്നെ അതിനെക്കുറിച്ച് വേഗത്തിൽ അറിയാൻ സ്വീകർത്താവിനെ സഹായിക്കും അതിനാൽ വിഷയ വരിയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലുകൾ ലഭിക്കുന്നതിൽ ആളുകൾ നിങ്ങളോട് വളരെ നന്ദിയുള്ളവരായിരിക്കും അടുത്തതായി നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നിങ്ങൾ മറുപടിയെ ബഹുമാനിക്കണം നിങ്ങൾ മറുപടിയെ ബഹുമാനിക്കണം അതായത് ഒരേ മെയിൽ വീണ്ടും വീണ്ടും വരുന്ന വിഷയ വരിയിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കരുത് അതിനാൽ അനന്തമായ ഒരു മറുപടിക്ക് മറുപടി നൽകുന്നതിനുള്ള മറുപടിയാണിത് എന്ന് സൂചിപ്പിക്കുന്ന ഈ പുനർവായന ഒഴിവാക്കുക ഇത് വീണ്ടും വിഷയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്താണ് ആവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയില്ല നിങ്ങൾ ശൃംഖലയിലാണെങ്കിൽ റീ മോണോടോണസ് ലൂപ്പ് തകർക്കാൻ തീരുമാനിക്കുകയും ഒന്നുകിൽ നിങ്ങൾ ഒരു റീ സൂക്ഷിക്കുകയും തുടർന്ന് വിഷയം എന്താണെന്ന് പറയുകയും അല്ലെങ്കിൽ നിങ്ങൾ ആ റീ നീക്കം ചെയ്യുകയും തുടർന്ന് അതിനെ ഒരു പുതിയ വിഷയമാക്കി മാറ്റുകയും ചെയ്താൽ ഈ പ്രവർത്തനത്തിന്റെ തുടർച്ച എന്ന് നിങ്ങൾക്ക് പറയാം ഒരു മെയിലിന് മറുപടി നൽകുമ്പോൾ ഓട്ടോമേറ്റഡ് റീ മറുപടിക്ക് വിടുന്നതിനുപകരം ഒരു സബ്ജക്ട് ലൈൻ ഉപയോഗിക്കുക ഇപ്പോൾ നിങ്ങൾ എല്ലാ അധിക റീ സുകളും നീക്കം ചെയ്യുകയും തുടർന്ന് നിങ്ങളുടെ ഇമെയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം ചേർക്കുകയും ചെയ്യുമ്പോൾ അത് വായിക്കുന്ന വ്യക്തിക്ക് വീണ്ടും വളരെയധികം ആശ്വാസം നൽകും വായ്പയ്ക്ക് അപേക്ഷിച്ച ഒരു ജീവനക്കാരന് ഞാൻ നൽകിയ ഉദാഹരണം നോക്കൂ അത് അടിയന്തിര വായ്പയാണ് അദ്ദേഹത്തിന് കുറച്ച് തുക ആവശ്യമാണ് ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മകന്റെ ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് അത് ആവശ്യമായിരുന്നു തുടർന്ന് തൊഴിലുടമയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു ഇപ്പോൾ തനിക്ക് തുക ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ ഉന്നത അധികാരികൾ അനുമതി നൽകുമോ ഇല്ലയോ എന്നതിൽ അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായിരുന്നു മെയിൽ തുറക്കുന്നതിന് മുമ്പുതന്നെ തൊഴിലുടമകൾ സബ്ജെക്റ്റ് ലൈനിൽ മറുപടി നൽകുന്നത് ജീവനക്കാരന് വലിയ ആശ്വാസമാകും അതിനാൽ അനുവദിച്ച തുക നോക്കുമ്പോഴും സമ്മർദ്ദത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു തുടർന്ന് അദ്ദേഹം തുറക്കുകയും എത്ര തുക അനുവദിച്ചുവെന്ന് വായിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് എങ്ങനെ ചെയ്യപ്പെടുന്നു അവൻ എങ്ങനെ തിരിച്ചടയ്ക്കണം അതെല്ലാം അതുപോലെ വിഷയം മാറ്റാതെ വിലാസത്തിനായി ഒരു പഴയ മെയിൽ ഉപയോഗിക്കരുത് ഇത് ഒരു വിഷയവുമില്ലാതെ മെയിൽ അയയ്ക്കുന്നതിനേക്കാൾ മോശമായ അലസതയെ സൂചിപ്പിക്കുന്നു മറ്റൊരു ഉദാഹരണം നോക്കുക ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ഗ്രാജ്വേറ്റ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ റീ വെൻഡിംഗ് മെഷീൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു സഹപ്രവർത്തകനിൽ നിന്ന് എനിക്ക് ഒരു മെയിൽ ലഭിച്ചിരുന്നു അതിനാൽ അയച്ചയാൾ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ പിജി കോഴ്സ് ഫോർവേഡ് ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെയാണ് മെയിൽ അയയ്ക്കുന്നത് പക്ഷേ വിഷയം വെൻഡിംഗ് മെഷീനാണ് അതിനാൽ അനൌപചാരികമായി ഡിപ്പാർട്ട്മെന്റിനായി ഒരു വെൻഡിംഗ് മെഷീൻ വാങ്ങുന്നതിലും ഞാനും ഉൾപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്നാൽ എന്റെ വിലാസം എടുക്കാൻ മാത്രം ആ വ്യക്തി ഇത് അതിലേക്ക് ഒരു റീ ആയി ഉപയോഗിച്ചു എന്നാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറഞ്ഞു അതിനാൽ തീർച്ചയായും എന്താണ് സംഭവിച്ചതെന്ന് എന്റെ സഹപ്രവർത്തകൻ നേരത്തെ ഒരു മെയിൽ ഉപയോഗിച്ചു അതിൽ ഞങ്ങൾ വെൻഡിംഗ് മെഷീനിൽ ചില നിർദ്ദേശങ്ങൾ പങ്കിട്ടു പക്ഷേ കോഴ്സ് ഫോർവേഡിംഗ് അഭ്യർത്ഥനയ്ക്കുള്ള ഒരു വിഷയമായി അത് ഉണ്ടായിരിക്കണം അതിനാൽ അത് വളരെ അനുചിതമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ വിഷയരേഖ എന്തായിരിക്കണമെന്ന് അറിയുകയും തുടർന്ന് അനുചിതമായത് നീക്കം ചെയ്യുകയും സ്വീകർത്താവിന്റെ സമയം വഹിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഉത്തരത്തെ ബഹുമാനിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട അടുത്ത ഇമെയിൽ മര്യാദ തൊഴിലുടമ ഫുൾ ക്യാപ്സ് ഉപയോഗിച്ചതിന്റെ ഉദാഹരണം ഞാൻ മുമ്പ് നൽകിയതുപോലെ നിങ്ങൾ മുഴുവൻ ക്യാപിറ്റലുകളിൽ ടൈപ്പ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നതാണ് ഇപ്പോൾ ആളുകൾക്ക് മെയിലിന്റെ ബോഡിയിൽ പോലും ഫുൾ ക്യാപ്സ് ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട് അത് വളരെ പ്രധാനമല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം അങ്ങനെയാണെങ്കിൽ പോലും അത് ഒരു വാക്കോ വാക്യമോ വാക്യമോ ആകാം മൂലധനം അനാവശ്യമായി ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കണം എന്നത് നിലവിളിയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ വലിയ അക്ഷരങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുകയും നിങ്ങൾ നിലവിളിക്കുകയോ നിലവിളിക്കുകയോ ചെയ്യുന്നുവെന്ന തോന്നൽ നൽകുകയും ചെയ്യുന്നു മാത്രമല്ല പൂർണ്ണമായ വലിയ അക്ഷരങ്ങളുള്ള നീണ്ട വാക്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ് സന്ദേശം പകർത്താൻ കണ്ണുകൾ കൂടുതൽ സമയമെടുക്കും ഇപ്പോൾ ഞാൻ വായിക്കാൻ ശ്രമിക്കുമ്പോഴും മുമ്പത്തെ വാചകം തന്നെ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ കഴിയും ഒറ്റയടിക്ക് വലിയ അക്ഷരങ്ങൾ വായിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവ ചെറിയ അക്ഷരങ്ങളുമായി കലർത്തുകയും വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ ഒരു വാക്യത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ശരിയായ നാമങ്ങൾക്കോ പേരുകൾക്കോ അല്ലെങ്കിൽ വലിയ അക്ഷരങ്ങളിൽ ആരംഭിക്കേണ്ട ചില പദങ്ങൾക്കോ അല്ലെങ്കിൽ ചില പദങ്ങൾ സംയോജിപ്പിക്കുന്നതിനും ചുരുക്കെഴുത്ത് ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്ന ചില ചുരുക്കെഴുത്തുകൾക്കോ മാത്രം ഉപയോഗിക്കുന്നു അല്ലാത്തപക്ഷം നിങ്ങളുടെ മെയിലിന് ഏതെങ്കിലും തരത്തിലുള്ള ഊന്നലും പ്രാധാന്യവും നൽകുമെന്ന് കരുതി നിങ്ങൾ പൂർണ്ണ മൂലധനങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട അടുത്ത ഇമെയിൽ മര്യാദ ക്രമരഹിതമായ സിസി ഇംഗ് അല്ല ഈ സിസി യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അക്കാലത്ത് ടൈപ്പ്റൈറ്ററിൽ കാർബൺ പകർത്തുക എന്നാണ് അവർ ഒരു കാർബൺ പകർപ്പ് സൂക്ഷിക്കുകയും ആ യഥാർത്ഥ പകർപ്പ് ആ വ്യക്തിക്ക് അയയ്ക്കുകയും ചെയ്തിരുന്നു ഇക്കാലത്ത് സിസി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥ മെയിൽ അയയ്ക്കുന്നു എന്നാൽ സിസി കോളത്തിൽ നിങ്ങൾ പ്രധാന വ്യക്തിയല്ലെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ ക്രമരഹിതമായി സിസി ചെയ്യരുത് മറ്റുള്ളവർക്ക് പകർപ്പോടെ ആരെങ്കിലും നിങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ആ വ്യക്തിക്ക് നേരിട്ട് മറുപടി നൽകണോ അതോ നിങ്ങൾ എല്ലാവർക്കും മറുപടി നൽകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ എല്ലാവർക്കും പകർപ്പുകൾ അയയ്ക്കണം നിങ്ങൾ എടുക്കേണ്ട വളരെ നിർണായകമായ തീരുമാനമാണിത് സന്ദേശം ഒരൊറ്റ സ്വീകർത്താവിൻ്റെ ശ്രദ്ധ തേടുമ്പോൾ പലർക്കും പകർത്തുകയോ എല്ലാവർക്കും മറുപടി നൽകുകയോ ചെയ്യരുത് ആ വ്യക്തിക്ക് ഇന്റേൺഷിപ്പ് ആവശ്യമുള്ള ഒരു ഇമെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു പക്ഷേ ഐഐടി കാൺപൂരിൽ ലഭ്യമായ മിക്കവാറും എല്ലാ ഇമെയിൽ ഐഡികൾക്കും സിസിഡി ചെയ്തിട്ടുണ്ട് അതിനാൽ സന്ദേശം ഒരൊറ്റ സ്വീകർത്താവിന്റെ ശ്രദ്ധ തേടുമ്പോൾ പലർക്കും പകർത്തുകയോ എല്ലാവർക്കും മറുപടി നൽകുകയോ ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ ആ സിംഗിൾ റിസീവർ അത് ശ്രദ്ധിക്കുന്നതിൽ പരാജയപ്പെടുകയും നിങ്ങൾക്ക് ഒരു മറുപടിയും ലഭിക്കില്ല ഇത് പരുഷവും മോശമായി കണക്കാക്കപ്പെടുന്നു അയയ്ക്കുന്നയാൾ ആവശ്യപ്പെടാത്ത സ്വീകർത്താക്കളുടെ സമയം നിസ്സാരമായി എടുക്കുന്നതിനാൽ പോലും അസംബന്ധം എല്ലാവരും അത് നോക്കുകയും തുടർന്ന് ഇല്ലാതാക്കുകയും ചെയ്യുന്നു മെയിൽ അനാവശ്യമാണെന്ന് തിരിച്ചറിയാൻ എടുക്കുന്ന സമയം പോലും ഇത് ഒരു സ്പാം ആണെന്നും തുടർന്ന് അത് ഇല്ലാതാക്കുന്നത് അയോഗ്യമാണെന്നും അത് വെറുതെ പാഴാക്കലാണ് അതിനാൽ ആളുകൾ എല്ലാവർക്കും മറുപടി നൽകുന്നത് പതിവാണ് അപ്പോൾ അവർ മനസ്സിലാക്കുന്നു ഓ ഞാൻ മറന്നു വെറും മറുപടി നൽകുന്നതിനുപകരം എല്ലാ ബട്ടണും മറുപടി നൽകി അതിനാൽ നിങ്ങൾ അബദ്ധത്തിൽ പലർക്കും പകർത്തുന്ന ഒരു തെറ്റ് ചെയ്യുന്നുവെന്ന് പോലും അറിയാതെ അശ്രദ്ധമായി പകർത്തുന്നത് പതിവാണ് അതിനാൽ അവിടെ നിങ്ങൾ ഒരു ചെക്ക് ഇടുന്നു അത് ഈ ആളുകൾക്കെല്ലാം പോകണോ അതോ ഒരു വ്യക്തിക്ക് മാത്രം പോകണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഇത് ഒഴിവാക്കുക ആവശ്യമില്ലാത്തപ്പോഴെല്ലാം മറുപടി നൽകുക അതിനാൽ നെറ്റിൽ ഇമെയിൽ മര്യാദകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ അത് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല പ്രൊഫൈൽ നൽകുന്നു ചുരുക്കെഴുത്തുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇമെയിലിലെ മറ്റൊരു പ്രവണത അവർ എല്ലാത്തരം ചുരുക്കെഴുത്തുകളും ഉപയോഗിക്കുന്നു എന്നതാണ് പ്രത്യേകിച്ച് ചാറ്റ് ഭാഷയും സോഷ്യൽ നെറ്റ്വർക്കിലെ ചാറ്റിൽ ഉപയോഗിക്കുന്ന ചുരുക്കെഴുത്തുകളും അവർ ഇമെയിലിലും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ ചുരുക്കെഴുത്തുകൾ വിവേകപൂർവ്വം ഉപയോഗിക്കണം അതിനർത്ഥം നിങ്ങൾ അത് നിയമപരമായി ഉപയോഗിക്കണം ഉചിതമായത് എന്താണെന്ന് നിങ്ങൾ അറിയുകയും എല്ലാവർക്കും അറിയുകയും വേണം നിരവധി ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക അതിനാൽ സാധാരണയായി അറിയപ്പെടുന്നതും സാർവത്രികമായി തിരിച്ചറിയാൻ കഴിയുന്നതുമായ ചുരുക്കെഴുത്തുകൾ അല്ലെങ്കിൽ ചുരുക്കെഴുത്തുകൾ ഉപയോഗിക്കുക നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില ഉദാഹരണങ്ങൾ എകെഎ ആൾസോ നോൺ ആസ് എഎസ്എപിആസ് സൂൺ ആസ് പോസ്സിബിൾ ബിട്ടിഡബ്ല്യു ബൈ ദി വെ എഫ് വൈ ഐ ഫോർ യുവർ ഇൻഫർമേഷൻ കെ ഐ ട്ടി കീപ് ഇൻ ടച്ച് എൽ ഓ എൽ ലാഫിങ് ഔട്ട് ലൌഡ് എസ് വൈ എസ് സീ യൂ സീ യൂ എൽ 8 ആർ ട്ടി വൈ വി എം താങ്ക് യു വെരി മച്ഛ് ഡബ്ല്യു ആർ ട്ടി വിത്ത് റെസ്പെക്ട് റ്റു ഇപ്പോൾ ചില ആളുകൾക്ക് ഇത് പോലും അറിയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇവയെങ്കിലും പൊതുവായി അറിയപ്പെടുന്നതും സാർവത്രികമായി തിരിച്ചറിയാവുന്നതുമാണ് എന്നതാണ് ആളുകൾക്ക് ഇത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും എന്നാൽ ഒരാളുടെ താൽപ്പര്യത്തിനും ഭാവനയ്ക്കും അനുസൃതമായി ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ച് ഞാൻ ഈ വാക്കുകൾ ചുരുക്കി ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്ന് ആ വ്യക്തി തീരുമാനിക്കുന്നു അതും അസ്ഥിരമായ അക്ഷരവിന്യാസത്തോടെ നിങ്ങൾ ഇതിനകം തന്നെ എവിടെയെങ്കിലും ചുരുക്കവും അക്ഷരവിന്യാസവും ഉണ്ട് അതിനിടയിൽ നിങ്ങൾ BETN എഴുതുന്നു നിങ്ങൾ BN എഴുതുന്ന മറ്റേതെങ്കിലും സ്ഥലത്ത് അതിനാൽ ചുരുക്കെഴുത്തിനായി പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന അക്ഷരവിന്യാസത്തിലെ പൊരുത്തക്കേടുകൾ സ്വീകർത്താവിന് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കും അതിനാൽ സന്ദേശം വളച്ചൊടിക്കപ്പെടുകയോ തെറ്റായി ചിത്രീകരിക്കപ്പെടുകയോ ചെയ്യാം ഇത് ഒരുതരം നെഗറ്റീവ് പ്രതികരണത്തിന് കാരണമാകും ഇത് നിങ്ങൾ ചുരുക്കെഴുത്തുകളുടെ ഉപയോഗത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയും ഇപ്പോൾ ഇംഗ്ലീഷിന്റെയും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും അദ്ധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയുന്ന മറ്റൊരു ഇമെയിൽ മര്യാദ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമെയിൽ മര്യാദയാണെന്നും നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നതിന് നിങ്ങൾ മതിയായ ശ്രദ്ധ നൽകണമെന്നും ഞാൻ പറയും സ്പെല്ലിംഗ് വ്യാകരണ പിശകുകളും ടൈപ്പോഗ്രാഫിക്കൽ പിശകുകളും ഒഴിവാക്കണമെന്ന് നിങ്ങളോട് പറയാനാണ് ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന പിശകുകളാണ് ടൈപ്പോഗ്രാഫിക്കൽ പിശകുകൾ അതിനാൽ ഒരു കീയ്ക്ക് പകരം നിങ്ങൾ മറ്റൊന്ന് അമർത്തുന്നു പക്ഷേ നിങ്ങളുടെ തിടുക്കത്തിൽ അവ പരിശോധിക്കാൻ നിങ്ങൾക്ക് സമയമില്ല അതിനാൽ നിങ്ങൾ അത് അതേപടി അയയ്ക്കുകയും ആളുകൾക്ക് മനസ്സിലാകുമെന്ന് കരുതുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒടുവിൽ ഇമെയിൽ അയയ്ക്കുമ്പോൾ സ്പെല്ലിംഗ് വ്യാകരണ പിശകുകളും ടൈപ്പോഗ്രാഫിക്കൽ പിശകുകളും നിങ്ങളുടെ ഇമെയിൽ പരിശോധിക്കുക ഇപ്പോൾ ഇന്ന് എല്ലാ ഇമെയിലുകളും സ്പെൽ ചെക്കറുകൾ വ്യാകരണ ചെക്കറുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ പോലും നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ അവർ അത് ചെയ്തില്ലെങ്കിൽ അവർ അടിവരയിടും നിങ്ങൾക്ക് അത് വാക്കിലേക്കോ മറ്റ് രേഖയിലേക്കോ കൊണ്ടുപോകാം നിങ്ങൾക്ക് അത് ഇടാനും കാണാനും കഴിയും അതിനാൽ സ്പെല്ലിംഗ് തെറ്റ് സാധാരണയായി ചുവപ്പ് നിറത്താൽ അടിവരയിടുന്നു വ്യാകരണ തെറ്റുകൾ പച്ച നിറത്താലോ അല്ലെങ്കിൽ ചില സോഫ്റ്റ്വെയറുകളിലോ അടിവരയിടുന്നു അത് ഏത് നിറമായാലും നീല നിറമാകാം ഇത് ഒരു തെറ്റാണെന്ന് ഇത് കാണിക്കുന്നു ഒരു റൈറ്റ് ക്ലിക്കിലൂടെ പോലും നിങ്ങൾക്ക് തെറ്റായ അക്ഷരവിന്യാസം ശരിയായതിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത് നിങ്ങൾ നിഘണ്ടുവിലേക്ക് പോകേണ്ടതില്ലാത്ത സ്പെൽ ചെക്കർ ഉപയോഗിക്കുക നിങ്ങൾ ആ ഒരു മിനിറ്റ് അധികമായി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സമയം ലാഭിക്കും നിങ്ങൾ തെറ്റായ ആശയവിനിമയം ഒഴിവാക്കുകയും അടിവരയിട്ട വാക്കുകൾക്ക് ശ്രദ്ധ നൽകുകയും ചെയ്യും കമ്പ്യൂട്ടർ അടിവരയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ അവ അവഗണിക്കരുത് അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ സ്വീകർത്താവിന്റെ ധാരാളം സമയം ലാഭിക്കുക മാത്രമല്ല നിങ്ങളുടെ സന്ദേശം ഫലപ്രദമായി ആശയവിനിമയം നടത്തുകയും സ്വീകർത്താവിന് നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ കൃത്യമായ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യും മാത്രമല്ല തെറ്റായ അക്ഷരവിന്യാസവും പതിവ് ടൈപ്പോഗ്രാഫിക്കൽ പിശകുകളും നിരക്ഷരതയും പ്രൊഫഷണലിസത്തിന്റെ അഭാവവും പ്രതിഫലിപ്പിക്കുന്നു നിരക്ഷരത എന്ന അർത്ഥത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത ആളല്ല മറിച്ച് ഈ നെറ്റിക്വെറ്റ് മാനദണ്ഡങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായും അറിവില്ലായ്മയുണ്ടെന്ന് ഇത് കാണിക്കുന്നു തീർച്ചയായും ഇമെയിൽ ആശയവിനിമയം ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ഒരു പ്രൊഫഷണലല്ലെന്നും ഇത് സൂചിപ്പിക്കും അടുത്ത കാര്യം ഒരുപോലെ പ്രധാനമാണ് അവിടെ നിങ്ങൾ വിരാമചിഹ്നങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു കാരണം ആളുകൾ ഇമെയിൽ എഴുതുമ്പോൾ ഇത് ഒരു തെറ്റായ ചിന്തയാണെന്ന് കരുതുന്നു ഇത് ഇമെയിലുകൾ അയയ്ക്കുമ്പോൾ വിരാമചിഹ്നങ്ങൾ ആവശ്യമില്ലെന്ന തെറ്റായ ധാരണയാണ് നിങ്ങൾ കൈകൊണ്ട് കത്ത് എഴുതുകയോ ടൈപ്പ് ചെയ്ത് അയയ്ക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ അത് സ്വമേധയാ കൈമാറുന്നുള്ളൂ ആളുകൾക്ക് വിരാമചിഹ്നങ്ങൾ ആവശ്യമാണെന്ന് തോന്നുന്നു വാസ്തവത്തിൽ ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ നിങ്ങളുടെ മാനുവൽ ശ്രമങ്ങൾക്ക് പകരമാണ് അതിനാൽ നിങ്ങൾ സ്വമേധയാ ചെയ്യുന്നതെന്തും നിങ്ങൾ പിന്തുടരുന്ന ഏത് മാനദണ്ഡ ഘടനയും ഇവിടെയും പാലിക്കണം ഇതിനുപുറമെ വ്യക്തമായ ആശയവിനിമയ വിരാമചിഹ്നങ്ങൾക്ക് ശേഷമുള്ള ക്യാപിറ്റലൈസേഷൻ സ്പെയ്സുകൾ വളരെ ആവശ്യമാണ് ഇപ്പോൾ വിരാമചിഹ്നങ്ങൾ ആവശ്യമില്ലെന്ന തെറ്റായ ധാരണയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിക്കാൻ പോകുന്നു അത് അധ്യാപകന് മനസ്സിലാകും മെയിലുകളുടെ വായനാക്ഷമതയെയും ഫലപ്രാപ്തിയെയും വളരെയധികം ബാധിക്കുന്ന വിരാമചിഹ്നങ്ങളെയോ വലിയക്ഷരങ്ങളെയോ തുടർന്ന് വ്യക്തിഗത ചുരുക്കെഴുത്തുകളെയോ അയച്ചയാൾ എങ്ങനെ പരിഗണിക്കില്ലെന്ന് ഇത് കാണിക്കുന്നു ഞങ്ങൾ വിശകലനം ചെയ്യാൻ പോകാത്ത ഈ മെയിൽ നോക്കൂ പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് കോമയില്ല പൂർണ്ണ വിരാമമില്ലെന്ന് നിങ്ങൾ കാണുന്നു തുടർന്ന് ഒരു വാചകം എപ്പോൾ ആരംഭിക്കുന്നുവെന്നും അത് എവിടെ അവസാനിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയില്ല ഒരു വാചകം ആരംഭിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതിന് വലിയ അക്ഷരങ്ങളില്ല ഉദാഹരണത്തിന് ബി അല്ലെങ്കിൽ അഗർവാൾ പോലുള്ള പേരുകൾ നോക്കൂ അതിനാൽ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതോ ക്യാപിറ്റലൈസ് ചെയ്യാത്തതോ ആയ പേരുകളുടെ ഇനീഷ്യലുകളും സരസ്വതി ദേവി കോളേജ് പോലെയുള്ള ഒന്നിന്റെ പേരും പോലും ക്യാപിറ്റലൈസ് ചെയ്യണം നിങ്ങൾ ഉപയോഗിക്കുന്ന ചുരുക്കെഴുത്തുകൾ നോക്കുകയാണെങ്കിൽ ബി ടി സി ഒ ഇസഡ് എന്നാൽ അതിനിടയിലോ അല്ലെങ്കിൽ അതിനിടയിലോ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഡി ഉപയോഗിക്കുന്നതിന് ഡബ്ല്യു ടി ഉപയോഗിക്കുന്നു അത് ഭാരമാണോ അതോ ഏതെങ്കിലും പിശകിനെ സംബന്ധിച്ചിടത്തോളം എൻ വൈ ആണെന്ന് എനിക്കറിയില്ല എന്നാൽ എൻ എൻ ഐ എഴുതപ്പെട്ട പിശക് വാക്ക് തന്നെ സ്പെല്ലിംഗ് തെറ്റ് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഈ ഇ മെയിലിനെക്കുറിച്ച് മറ്റേയാൾക്ക് എന്തുതരം ധാരണയുണ്ടാകും വിരാമചിഹ്നങ്ങളൊന്നും കണക്കിലെടുക്കാതെ വാചകം എപ്പോൾ ആരംഭിക്കുന്നുവെന്ന് എവിടെ അവസാനിക്കുന്നുവെന്ന് പറയാൻ ഒരു മാർഗവുമില്ല അതിനാൽ ഇത് തീർച്ചയായും ആ വ്യക്തിയെ പ്രകോപിപ്പിക്കും ആ വ്യക്തി എന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ ആ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഈ ഇമെയിലിൽ നിന്നുള്ള യഥാർത്ഥ സന്ദേശം മനസിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇത് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും വിരാമചിഹ്നങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ഇപ്പോൾ അവസാനം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓർമ്മിക്കേണ്ട അവസാന മതിയായ മാനദണ്ഡത്തോടെയാണ് അത് വീണ്ടും വളരെ ലളിതമാണ് എന്നാൽ നിങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്ലോക്ക് പരിശോധിക്കുന്നത് അവഗണിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ റീസെറ്റ് ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങൾ അത് റീഫോർമാറ്റ് ചെയ്യുന്നു ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന സമയം നിങ്ങൾ അവഗണിക്കുന്നു ചിലപ്പോൾ അത് പ്രാദേശിക സമയവുമായി സമന്വയിപ്പിക്കപ്പെടുന്നു ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത മറ്റേതെങ്കിലും സമയവുമായി ഇത് സമന്വയിപ്പിക്കപ്പെടുന്നു ചിലപ്പോൾ ഇത് ഇപ്പോഴത്തെ മണിക്കൂറിന് പകരം കഴിഞ്ഞ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങളുടെ സിസ്റ്റം ക്ലോക്ക് ശരിയായി സജ്ജീകരിച്ച് അത് AM ആണോ അതോ PM ആണോ എന്ന് തീരുമാനിക്കുക ചിലപ്പോൾ അത് PM ആയിരിക്കേണ്ട AM കാണിക്കുന്നു ഇപ്പോൾ ഭാവിയിലേക്കുള്ള ഒരു കൂടിക്കാഴ്ച നിശ്ചയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് വിളിക്കുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ വായനക്കാരനെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കും അതേസമയം നിങ്ങളുടെ മെയിൽ മുൻകാലങ്ങളിൽ കാലഹരണപ്പെട്ട സമയത്തെ സൂചിപ്പിക്കും നമുക്ക് നാളെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഇമെയിൽ അയയ്ക്കുകയാണെന്ന് കരുതുക ഇന്ന് ഒൻപതാം ദിവസം ആണെന്ന് പറയട്ടെ തുടർന്ന് നിങ്ങൾ നാളെ കണ്ടുമുട്ടാം എന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ മെയിൽ സമയം സൂചിപ്പിക്കുന്നത് അത് ഏഴാം തീയതിയാണ് അയച്ചതെന്നും നാളെ യഥാർത്ഥത്തിൽ എട്ടാമത്തേതെന്നും നിങ്ങൾ ഒൻപതാം തീയതിയാണ് അയയ്ക്കുന്നതെന്നും അവർ പത്താം തീയതിയിൽ നിങ്ങളെ കാണുമെന്ന് കരുതുന്നു ഇപ്പോൾ മിക്ക ആളുകളും മെയിൽ വളരെ പിന്നീട് കണ്ടതായി കാണും അത് അവരുടെ ഇമെയിലായിരിക്കാം ഇന്റർനെറ്റ് കണക്റ്റിവിറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനാൽ അവർക്ക് നിങ്ങളുടെ മെയിൽ ഒന്നോ രണ്ടോ ദിവസം വൈകി ലഭിച്ചു മീറ്റിംഗ് ഇതിനകം അവസാനിച്ചു അതിനാൽ നിങ്ങൾ പോയി ആളുകൾ വരുന്നതിനായി ഇരിക്കുക ആളുകൾ വീണ്ടും കാര്യക്ഷമമല്ലാത്ത ആശയവിനിമയക്കാരാണെങ്കിൽ അവർ അനുമാനിക്കുന്നു തുടർന്ന് അവർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അവർ നല്ല ആശയവിനിമയക്കാരാണെങ്കിൽ അവർ വ്യക്തത തേടും അവർ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യും അവർ നിങ്ങളെ പരിശോധിക്കും അവർ നിങ്ങളെ ഫോണിൽ വിളിക്കും അവർ നിങ്ങൾക്ക് സന്ദേശം അയയ്ക്കും എന്നാൽ മിക്കപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നല്ല ആശയവിനിമയത്തിന് വളരെയധികം ഏകോപനം ആവശ്യമാണ് അത് അടുത്ത ആഴ്ചയിൽ നല്ലതും ഫലപ്രദവുമായ ആശയവിനിമയക്കാരനാകുന്നതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കും എന്നാൽ ഈ സമയത്ത് മിക്ക ആളുകളും തിരക്കിലാണെന്ന് കരുതുക മിക്ക ആളുകളും കാര്യങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ നിങ്ങൾ അയച്ച യഥാർത്ഥ സമയം പരിശോധിക്കാൻ പോലും അവർ മെനക്കെടാറില്ല അതിനാൽ ഇത് ഒഴിവാക്കുകയും കമ്പനിയ്ക്കോ സംഘടനയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്കോ നിങ്ങൾ വരുത്തുന്ന വലിയ തെറ്റുകൾ കുറയ്ക്കുകയും ചെയ്യുക ഉപസംഹാരമായി നെറ്റിക്വെറ്റ് മാനദണ്ഡങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഉയർന്ന തലത്തിലുള്ള പ്രൊഫഷണലിസവും ഇഷ്ടവും സൃഷ്ടിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ മിടുക്കനായ ഒരു വ്യക്തിയെന്ന നിലയിൽ ആളുകൾ നിങ്ങളെ നോക്കുക മാത്രമല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ അവർ വിലമതിക്കുകയും ഇന്റർനെറ്റ് അധിഷ്ഠിത ആശയവിനിമയത്തിൽ അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുകയും ചെയ്യും നിങ്ങൾ അയച്ചതെന്തും നിങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം ലഭിക്കുന്നു അത് ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ ഒരു മുഖമുദ്രയാണ് ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച നമ്മൾ ചർച്ച ചെയ്യും ഇപ്പോൾ ഈ പ്രഭാഷണവും മുമ്പത്തേതും നെറ്റിക്വറ്റിനുള്ള ഒരു ദ്രുത ചെക്ക്ലിസ്റ്റായി ഉപയോഗിക്കുകയും നല്ലതും ആകർഷകവും ചിന്തനീയവും സമയം ലാഭിക്കുന്നതും ഉപയോഗപ്രദവും ഫലപ്രദവും രസകരവുമായ ഇമെയിലുകൾ അയയ്ക്കുന്നതിൽ പ്രശസ്തി വളർത്തുകയും ചെയ്യുക നിങ്ങളുടെ മെയിലുകൾ വായിക്കണം നിങ്ങളുടെ മെയിലുകൾക്ക് മറുപടി നൽകണം നിങ്ങളുടെ മെയിലുകൾ നേരിട്ട് ചവറ്റുകുട്ടയിലേക്ക് പോകരുത് നിങ്ങളുടെ മെയിലുകൾ പിന്നീട് വായിക്കുന്നതിനോ വായിക്കാത്തതിനോ ഫിൽട്ടർ ചെയ്യരുത് അതിനാൽ നിങ്ങൾ മുൻഗണന ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആളുകൾ നിങ്ങളുടെ മെയിൽ കാണുമ്പോഴെല്ലാം ഒരു പ്രധാന ഉള്ളടക്കം ഉള്ളപ്പോൾ മാത്രമേ ഈ വ്യക്തി ഇമെയിൽ അയയ്ക്കുന്നുള്ളൂ എന്ന ധാരണ അവർക്ക് ലഭിക്കണം അതിനാൽ ഞാൻ ആദ്യം ഈ മെയിൽ പരിശോധിക്കണം ഈ വ്യക്തി ഒരിക്കലും ഒരു സ്പാം അയയ്ക്കുന്നില്ല ഇത് വളരെ വിവേകമുള്ള വ്യക്തിയാണ് എല്ലാ നെറ്റിക്വറ്റ് മാനദണ്ഡങ്ങളും അറിയാം ഈ പ്രഭാഷണം അത് ചെയ്യാനും ഇത് ഒരുതരം ചെക്ക്ലിസ്റ്റായി ഉപയോഗിക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാങ്കേതികവിദ്യയെയും ആശയവിനിമയത്തെയും കുറിച്ചുള്ള ഒരു സമാപന ചിന്ത എന്ന നിലയിൽ അടിസ്ഥാനപരമായി ആശയവിനിമയം സുഗമമാക്കിയ നിരവധി സാങ്കേതിക കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും മൊബൈലോ ഇമെയിലോ ആകട്ടെ ഈ ഗാഡ്ജെറ്റുകളിൽ ഭൂരിഭാഗവും നെറ്റ് ഉപയോഗിക്കുന്നതിനും സമയം ലാഭിക്കുന്നതിനായി ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നതിനുമാണ് കണ്ടുപിടിച്ചതെന്ന് ഓർക്കുക എന്നാൽ അവ യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ശരിയായി ഫലപ്രദമായി ഉപയോഗിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ നാം പഠിക്കുന്ന ധാർമ്മികത സാങ്കേതികവിദ്യയ്ക്ക് നന്ദി ഇപ്പോൾ സങ്കൽപ്പിക്കാൻ കഴിയാത്തതുവരെ കാര്യക്ഷമതയോടെ സമയം പാഴാക്കാം എല്ലാം സമയം ലാഭിക്കുന്നതിന്റെ പേരിൽ ഒരിക്കൽക്കൂടി ഓർക്കുക സാങ്കേതികവിദ്യയ്ക്ക് നന്ദി സങ്കൽപ്പിക്കാനാവാത്ത കാര്യക്ഷമതയോടെ നമുക്ക് ഇപ്പോൾ സമയം പാഴാക്കാം സമയം ലാഭിക്കുന്നതിനായി കണ്ടുപിടിച്ച ഗാഡ്ജെറ്റുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഈ കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നാൽ സമയം ലാഭിക്കുന്നതിന്റെ പേരിൽ മറ്റെന്തിനെയും പോലെ ഞങ്ങൾ സമയം പാഴാക്കുകയാണ് എന്നാൽ ആഴ്ചയിലെ മുഴുവൻ ഉള്ളടക്കവും ഫലപ്രദമായി ഉപയോഗിക്കാനും നിങ്ങളുടെ സമയം മാത്രമല്ല ആശയവിനിമയത്തിൽ നിങ്ങളോടൊപ്പം ഏർപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരുടെ സമയവും ലാഭിക്കാനും നിങ്ങളോട് പറയുക എന്നതാണ് ഈ ആഴ്ച മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നതിനും സാങ്കേതികവിദ്യയെയും ആശയവിനിമയത്തെയും കുറിച്ചുള്ള വീഡിയോകളിൽ നിന്ന് പ്രയോജനം നേടിയതിനും വളരെ നന്ദി അടുത്ത ആഴ്ചയിൽ ആശയവിനിമയത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ വീഡിയോ കണ്ടതിന് ഒരിക്കൽക്കൂടി നന്ദി